കോണിക് സെക്ഷൻസ് - XII എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ നമ്പർ 2 ലെക്ചർ 20 ലാണ് നിൽക്കുന്നത് ഇതിൽ നമ്മൾ കോണിക് വിഭാഗങ്ങളുടെ ഭാഗം പൂർത്തിയാക്കുന്നു ഒരു കോണിന് മുകളിൽ ഒരു കോണാകൃതിയിലുള്ള ഹെലിക്സ് എങ്ങനെ നിർമ്മിക്കാം ഒരു കോണിന് ചുറ്റും ഒരു കയർ അല്ലെങ്കിൽ ത്രെഡ് അഗ്രത്തിൽ നിന്ന് അടിയിലേക്ക് തിരിയുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ജ്യാമിതീയ കർവിനെ കോണാകൃതിയിലുള്ള ഹെലിക്സ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് അടിസ്ഥാനം 70 മില്ലീമീറ്ററും ഉയരം 90 മില്ലീമീറ്ററും ഉള്ള ഒരു കോണിന് ചുറ്റും ഒരു കോണാകൃതിയിലുള്ള ഹെലിക്സ് നോക്കാം അത് ബേസിൽ നിന്ന് ആരംഭിച്ച് മുകളിലേയ്ക്ക് ഒരു വൈൻഡിങ് ഉണ്ടാക്കുന്നു അതിനാൽ ആദ്യം അത് ചെയ്യുന്നതിന് നമുക്ക് ഒരു കോണിന്റെ ഫ്രണ്ട് വ്യൂ നിർമ്മിക്കേണ്ടതുണ്ട് ആദ്യം ആവശ്യമായ ബേസും ഉയരവും ഉള്ള ഒരു ത്രികോണം നമ്മൾ നിർമ്മിക്കണം ഒരു കാഴ്ചയിൽ നമ്മൾ അത് താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഒരു വൃത്തം പോലെ കാണപ്പെടുന്നു അതിനാൽ കാഴ്ചകളിലൊന്ന് ഒരു വൃത്തമാണ് അതിനാൽ അതേ വ്യാസമുള്ള ഒരു വൃത്തം നമ്മൾ നിർമ്മിക്കണം തുടർന്ന് വൃത്തത്തിനെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക 1 2 3 4 5 6 7 8 എന്നിങ്ങനെ അക്കമിടുക അതിനുശേഷം ഈ കോൺ ഉയരം P മുതൽ h വരെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക തിരശ്ചീന രേഖകൾ വരച്ചുകൊണ്ട് നമ്മൾ ഇത് 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കണം എന്നിട്ട് അവയെ 1 2 3 മുതൽ 8 വരെ പോയിന്റുകളായി അക്കമിടുക ഇപ്പോൾ ഈ ലേബലുകളിൽ നിന്ന് സർക്കിളിന്റെ 1 2 3 4 5 6 7 8 കോണുകളിൽ രേഖകൾ സൃഷ്ടിക്കാൻ പോകുന്ന രേഖകൾ വിപുലീകരിക്കുക അതിനാൽ ഇവയെ കോണിന്റെ ജനറേറ്റഡ് രേഖകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇതിനെ ഒരു പ്രത്യേക രേഖയായി പരിഗണിക്കാം ഈ സമയത്ത് ഒരു ജനറേറ്റർ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ 3 നീട്ടണം അത് 5 ലൂടെ കടന്നുപോകും അത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ബേസിനെ മുറിക്കുന്നു അവിടെ നിന്ന് പൊയന്റിനെ പീക്ക് അല്ലെങ്കിൽ അഗ്രത്തിലേക്ക് ബന്ധിപ്പിക്കുക അതിനാൽ ജനറേറ്ററുകളിലൊന്ന് നമ്മൾ നിർമ്മിക്കുന്ന രീതി ഇതാണ് അതുപോലെ രണ്ടിൽ നിന്ന് ആ സ്ഥാനത്തേക്ക് നീട്ടുക ആ പോയിന്റ് മുതൽ പോയിന്റ് 8 വരെ നമുക്ക് മറ്റൊരു ജനറേറ്റർ നിർമ്മിക്കാൻ കഴിയും അതുപോലെ 1 മുതൽ 7 വരെ നീളുന്ന ഒരു രേഖ ഈ കോണിന്റെ ബേസിനെ മുറിക്കുന്നു ഈ ബേസിനെ 8 മായി ബന്ധിപ്പിക്കുക ഒന്നാമതായി നമ്മൾ കോണിന്റെ ജനറേറ്ററുകളും ആ കോണിലെ തുല്യമായ ഡിവിഷനുകളും നിർമ്മിക്കണം അത് ചെയ്തുകഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ഇൽ നമ്മൾ ഈ കോണിന് ചുറ്റും പോയിൻറുകൾ അല്ലെങ്കിൽ വിൻഡിംഗ് റോപ്പ് നിർമ്മിക്കും അതിനാൽ ഈ ഫ്രണ്ട് വ്യൂ ഇൽ പി ലെവലിൽ ഒരു പോയിൻറ് ഉണ്ടാക്കാൻ പോകുന്നു ഈ 8 പോയിൻറുകൾ നമ്മൾ വിപുലീകരിക്കുന്നു അതുപോലെ തന്നെ ഈ 1 തുല്യ ഡിവിഷന്റെ ഇന്റർസെക്ഷൻ രേഖയും 1 പോയിന്റിലൂടെ കടന്നുപോകുന്ന ഒരു രേഖയും പോകുന്നുവെങ്കിൽ അത് പോയിന്റ് പി 1 ഉണ്ടാക്കും രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് ചെയ്തുകഴിഞ്ഞാൽ ഈ രേഖയും തിരശ്ചീന രേഖയും നീട്ടുക അത് പോയിന്റ് പി 2 നെ വിഭജിക്കാൻ പോകുന്നു തിരശ്ചീന രേഖ P3 3 നെ ജനറേറ്റ് ചെയ്യും അതിനാൽ ഇത് വിഭജിക്കാൻ പോകുന്ന രേഖയാണിത് ഇത് വിപുലീകരിക്കുക അങ്ങനെ നമ്മൾ മറ്റൊരു പോയിന്റ് പി 3 ഉണ്ടാക്കാൻ പോകുന്നു അതുപോലെ പി 4 അവിടെ നാലാമത്തേത് വിഭജിക്കാൻ പോകുന്ന ഒരു രേഖ സൃഷ്ടിക്കുന്നു അഞ്ചാമത്തെ ജനറേറ്റർ രേഖ ഈ പോയിന്റിലൂടെ കടന്നുപോകുന്നു അഞ്ചാമത്തേത് അവിടെ പോയിന്റുമായി വിഭജിക്കുന്നു അതിനാൽ നമ്മൾ ആ രീതിയിൽ നിർമ്മിക്കും നമ്മൾ P1 2 3 4 5 6 7 8 പോയിന്റുകൾ കണ്ടെത്തുന്നു അതിനാൽ ആദ്യത്തേതിന് നമ്മൾ എല്ലായ്പ്പോഴും ജനറേറ്റർ ലൈനിനേയും ജനറേറ്ററുകളിലൊന്നിൽ നിർമ്മിച്ച തുല്യ വിഭജനത്തേയും വിഭജിക്കണം അതിനാൽ ജനറേറ്ററുകളിലൊന്ന് തുല്യമായ വിഭജനം ജനറേറ്റർ രേഖ 1 മായി വിഭജിക്കുന്ന ഒന്നാണ് ഇത് അതിനാൽ ഈ രീതിയിൽ ഈ സ്റ്റോപ്പ് പോയിന്റുകളെല്ലാം നമ്മൾ നിർമ്മിക്കും സ്റ്റോപ്പ് പോയിന്റുകൾ നിർമ്മിച്ചുകഴിഞ്ഞാൽ നമുക്ക് പി 1 പി 2 പി 3 പി 4 എന്നിവയിലൂടെ കടന്നുപോകുന്ന ഒരു ഫ്രീഹാൻഡ് സ്കെച്ച് നിർമ്മിക്കാൻ കഴിയും മുകളിലെ വശത്ത് ഒരു കോണിനെ ചുറ്റുന്ന ഒരു കോണാകൃതിയിലുള്ള ഹെലിക്സ് നിർമ്മിക്കുന്ന രീതിയാണിത് ബോട്ടം വ്യൂ യിലും പി യിൽ നിന്ന് ലംബമായ ഒരു രേഖ വരച്ചാൽ അത് ഈ ഘട്ടത്തിൽ ആദ്യ രേഖ യുമായി വിഭജിക്കും ആദ്യത്തെ പോയിന്റ് P1 കണ്ടെത്തുക ജനറേറ്റർ ലൈനുകളിൽ ഒന്നിൽ നിന്ന് ഈ പി 2 വിപുലീകരിക്കുക മധ്യഭാഗത്ത് നിന്ന് ചെയ്തുകഴിഞ്ഞാൽ ഈ പോയിന്റിനെ വിഭജിക്കാൻ പോകുന്ന ഒരു ആർക്ക് ഉണ്ടാക്കി അതിനെ പി 2 എന്ന് വിളിക്കുക പി3 ന് ലംബമായി രേഖ വരയ്ക്കുക അങ്ങനെ അത് മൂന്നാം രേഖയുമായി വിഭജിക്കാൻ പോകുന്നു അതിനെ പി 3 എന്ന് വിളിക്കുക പി 4 നായി വിഭജിക്കുന്നിടത്ത് ഒരു രേഖ വരയ്ക്കുക ആ പോയിന്റിനെ P4 എന്ന് വിളിക്കുക അതുപോലെ തന്നെ P5 പോയിന്റിൽ നിന്ന് അത് താഴേക്ക് നീട്ടുക അത് അവിടെ വിഭജിക്കാൻ പോകുന്നു അതിനാൽ ആ പോയിന്റിനെ P5 എന്ന് വിളിക്കുക P6 നായി തുല്യ ദൂരത്തിൽ അവസാനിക്കുന്ന ജനറേറ്ററുകളിൽ ഒന്നിൽ നിന്ന് ഒരു രേഖ വരയ്ക്കുക O മുതൽ ഈ പോയിന്റ് വരെ ഒരു ആർക്ക് വരച്ച് P6 കണ്ടെത്തുക പി 7 നായി രേഖ താഴേക്ക് നീട്ടുക അത് ആ സമയത്ത് വിഭജിക്കാൻ പോകുന്നു ആ രീതിയിൽ ബോട്ടം വ്യൂ യിലും നമ്മൾ പോയിന്റുകൾ പി 1 പി 2 പി 3 P1 P2 P3 നിർമ്മിക്കും ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു രേഖ വരയ്ക്കുക കോണാകൃതിയിലുള്ള ഹെലിക്സ് ടോപ് വ്യൂയിൽ കാണപ്പെടുന്നു കാഴ്ച ആണിത് ഈ ഘട്ടങ്ങൾ ഒരു ഗ്രാഫിക്കൽ ഷീറ്റിൽ ചെയ്യാം ആദ്യം 70 മില്ലീമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം നമ്മൾ നിർമ്മിക്കണം അതിനാൽ 35 മില്ലീമീറ്റർ വരുന്ന ഒരു പോയിന്റ് കണ്ടെത്തുക നമുക്ക് സ്കെയിൽ നീട്ടിക്കൊണ്ട് ആ വൃത്തത്തിലേക്കു ഒരു ടാൻജെന്റ് വരയ്ക്കാം അതിനു സമാന്തരമായി സമാന്തര രേഖകൾ നിർമ്മിക്കാൻ നാം നീങ്ങണം അതുപോലെ ഒരു സമാന്തര രേഖ കൂടി മുകളിലേക്ക് വരയ്ക്കുക ബേസിൽ നിന്ന് ഈ രേഖകളിൽ അഗ്രം കണ്ടെത്തുക നമുക്ക് ബേസ് രേഖ ചേർക്കാം അതിനാൽ നമുക്ക് ഇതിനെ കോൺ ബേസ് ആക്കാം 90 മില്ലീമീറ്റർ ആയി കോണിന്റെ ഉയരത്തിനെ നമ്മൾ അടയാളപ്പെടുത്തുക ഒരു ത്രികോണം പോലെ കാണപ്പെടുന്ന ഒരു കോണിന്റെ കാഴ്ചകളിലൊന്ന് നിർമ്മിക്കുന്നതിന് ഈ അന്തിമ പോയിന്റുകൾ ചേർക്കുക ഇപ്പോൾ ഈ കോണിന്റെ ചരിഞ്ഞ കാര്യം തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക ഈ പ്രൊജക്റ്റ് ചെയ്ത രേഖയെ തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നതിന് നമുക്ക് ഉപയോഗിക്കാം കോമ്പസ് ഉപയോഗിച്ച് 8 തുല്യ ഡിവിഷനുകൾ ഉണ്ടാക്കുക 1 2 3 4 5 6 7 8 ലഭിക്കുന്നു ഈ പോയിന്റുകൾക്ക് 1' 2' 3' 4' 5' 6' 7' 8' എന്ന് പേരു നൽകുക ആ കോണിന്റെ പീക്ക് അല്ലെങ്കിൽ അഗ്രവുമായി ആദ്യത്തേതും അവസാനത്തെയും പോയിന്റുകൾ ചേർക്കുക അതിനു സമാന്തരമായി നാം അത് നിർമ്മിക്കണം അതിനാൽ നമുക്ക് സമാന്തര രേഖകൾ ആവശ്യമാണ് അതിനാൽ മറ്റ് ഡിവിഷണൽ രേഖകൾ നിർമ്മിക്കാൻ നമുക്ക് കഴിയും ഇപ്പോൾ ഇവ 1 2 3 പോയിന്റ് 4 5 6 7 8 പോയിന്റ് എന്നിങ്ങനെ പേരുനൽകുക 8 ഡിവിഷനുകൾ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ വൃത്തത്തിനെ 8 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുക നമ്മൾ ഇതിനകം 4 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചു കഴിഞ്ഞു ഇരുവശത്തും 45° ആംഗിൾ കണ്ടെത്തി രേഖകൾ ചേർക്കുക ഇപ്പോൾ 1 2 3 4 5 6 7 8 എന്ന് പേരിടുക ഈ പോയിന്റുകളിലേക്ക് ലംബമായി കടന്നുപോകുന്ന ഒരു രേഖ വരയ്ക്കുക ഇത് ഈ ഒന്നാം പോയിന്റും മൂന്നാം പോയിന്റും ബന്ധിപ്പിക്കും അതിനാൽ ഇത് ഈ ഘട്ടത്തിൽ അക്ഷം മുറിക്കുന്നു അതുപോലെ ഈ രേഖകൾ 2 മുതൽ 6 വരെ നീട്ടുക അതുപോലെ ഒന്നും രണ്ടും പോയിന്റ് നീട്ടുക ഈ കോണിൽ 1 2 3 ലൂടെ കടന്നുപോകുന്ന തിരശ്ചീന രേഖകൾ വരയ്ക്കുക അതിനാൽ ഈ രേഖകളാണ് ജനറട്രിക്സിനെ വിഭജിക്കാൻ പോകുന്നത് ഈ ജനറട്രിക്സിനായി ഇന്റർസെക്ഷൻ പോയിന്റുകൾ കണ്ടെത്തുക അതിനാൽ ആദ്യത്തേത് ഈ ഘട്ടത്തിൽ 1 മായി വിഭജിക്കുന്നു അതിനെ അഗ്രത്തിൽ ചേർക്കുക അതുപോലെ 5 മത്തെ പോയിന്റ് 8 മത്തെതിൽ ചേർക്കുക ഇപ്പോൾ 8 മുതൽ പി വരെയുള്ള ഇന്റർസെക്ഷൻ പോയിന്റുകൾ പി ആണ് നമുക്ക് ചുവപ്പ് നിറമുള്ള മഷി ഉപയോഗിക്കാം ആദ്യ പോയിന്റ് പി ആണ് ഈ ജനറട്രിക്സ് തിരശ്ചീന രേഖയെ വിഭജിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് പി 1 ആണ് അതുപോലെ ജനറാട്രിക്സും ഈ തിരശ്ചീന രേഖയും പി2 ൽ വിഭജിക്കുന്നു പോയിന്റ് 3 വിപുലീകരിക്കുക അത് 3 നെ വിഭജിക്കാൻ പോകുന് ഇത് പി3 ൽ വിഭജിക്കുന്ന ജനറട്രിക്സ് വഴി പോകുന്നു ജനറട്രിക്സ് വഴിയുള്ള നാലാമത്തെ രേഖ പി4 ൽ വിഭജിക്കുന്നു അഞ്ചാമത്തെ രേഖ ഇവിടെ വിഭജിക്കുന്നു ആറാമത്തേത് ഈ പോയിന്റിലൂടെ കടന്നുപോകുന്നു പി6 ഉം ഏഴാമത്തെ രേഖ യും ഈ ജനറട്രിക്സ് വഴിയും 8 ആം രേഖ ജനറട്രിക്സ് പി8 വഴിയും കടന്നുപോകുന്നു ഇപ്പോൾ ഒരു ഫ്രീഹാൻഡ് കർവ് ഉപയോഗിച്ച് ഈ രേഖകൾ ചേർക്കുക ഒരു കോണിന് ചുറ്റും ഒരു കയർ വീശുമ്പോൾ ആ കയറിന്റെ മുൻഭാഗം ദൃശ്യമാകും ഇത് കോണിന്റെ പുറകുവശത്ത് വീശുമ്പോൾ അത് അദൃശ്യമായിരിക്കും ഫ്രണ്ട് വ്യൂ അത് അവിടെ ഉണ്ടെങ്കിലും അത് നമുക്ക് അദൃശ്യമാണ് അതിനാൽ അത്തരത്തിലുള്ള അദൃശ്യമായ രേഖകൾ ഡാഷ് ചെയ്ത രേഖകളാൽ കാണിക്കുന്നു അതിനാൽ നമുക്ക് ഇത് ബന്ധിപ്പിക്കാം പി4 മുതൽ അത് തിരികെ പോയി വൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ നമ്മൾ അതിനെ ഡാഷ് ചെയ്ത രേഖകളാൽ കാണിക്കുന്നു അതിനാൽ ഒരു ഡാഷ് രേഖ അതിലൂടെ കടന്നുപോകുന്നു ഇപ്പോൾ ഒരു നിറം ഉണ്ടാക്കുക അതിനാൽ നമ്മുടെ കോണാകൃതിയിലുള്ള ഹെലിക്സ് ഫ്രണ്ട് വ്യൂ ഇൽ ആ രീതിയിൽ കാണുന്നു അതിനാൽ കർവിന്റെ താഴത്തെ ഭാഗത്തും നമുക്ക് അത് ചെയ്യാം ഈ ദിശയിലുള്ള ടോപ് വ്യൂ ഇൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ പ്രതലത്തിലെ ഹെലിക്സ് എങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നത് എന്ന് വരയ്ക്കാം അതിനാൽ ഇന്റർസെക്ഷൻ പോയിന്റുകൾ പി 1 പി 2 പി 3 പി 4 എന്നിങ്ങനെയാണ് അതിനാൽ നമുക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്ന പ്രൊജക്ഷൻ ഏറ്റവും താഴെയുള്ള പോയിന്റുകളിലൂടെയാണ് കടന്നുപോകുന്നത് അതിനാൽ നമുക്ക് ഈ തലം സമാന്തരമായി നീങ്ങാം ഇത് ചുവന്ന രേഖയാൽ സ്ഥിതിചെയ്യുന്ന ആദ്യത്തെ ജനറട്രിക്സിലേക്ക് പി1 നെ വിഭജിക്കുന്നു അതിനാൽ ആദ്യത്തെ പോയിന്റ് വീണ്ടും പി ആണ് ഇത് പി 1 ആണ് നമുക്ക് ഈ പി 1 ഉപയോഗിക്കാം രണ്ടാമത്തേത് ജനറട്രിക്സ് വഴി പോകുന്നു അതിനാൽ 2 ന് സമാന്തരമായി നീക്കി തിരശ്ചീന രേഖയിലേക്ക് മാറ്റുക അവിടെ നിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് ഒരു ആർക്ക് നിർമ്മിക്കാൻ ഒരു കോമ്പസ് ഉപയോഗിക്കുക ഇത് ഇവിടെ വിഭജിക്കുന്നു അതിനെ പി 2 എന്ന് വിളിക്കുക ഇപ്പോൾ 3 ലേക്ക് സമാന്തരമായി നീങ്ങുക ഇത് ഇവിടെ വിഭജിക്കുന്നു ആ പോയിന്റിനെ പി 3 എന്ന് വിളിക്കുക അതുപോലെ ഈ നാലാമത്തേതിന് സമാന്തരമായി കടന്നുപോകുക ഇത് ഇവിടെ 4 നെ വിഭജിക്കുന്നു അതിനാൽ നമുക്ക് ഇതിനെ പി 4 എന്ന് വിളിക്കാം അതുപോലെ 5 ന് സമാന്തരമായി കടന്നുപോകുക ഇത് ഈ ഘട്ടത്തിൽ പി 5 വിഭജിക്കുന്നു 6 ന് വീണ്ടും ഈ പോയിന്റിലൂടെ പോകുന്നു എന്നിരുന്നാലും 6 ന് സമാന്തരമായി പോകുന്ന കൃത്യമായ അളവ് നമുക്ക് ആവശ്യമാണ് അതിനാൽ നമ്മൾ തിരശ്ചീനമായി വിഭജിക്കുന്നു ആ അക്ഷത്തിൽ ഈ പോയിന്റിന്റെ ദൂരം അളക്കുക ഈ പോയിന്റ് P6 ആയി ബന്ധിപ്പിക്കുക P7 7 വഴി കടന്നുപോകുന്നു ഇത് ഈ പോയിന്റിനെ വിഭജിക്കുന്നു ഇതിനെ പി 7 എന്ന് വിളിക്കുക പി 8 ഇവിടെ എവിടെയെങ്കിലും ലഭിക്കും ഇപ്പോൾ ആ ദിശയിൽ ടോപ് വ്യൂ ഇൽ നിന്ന് നോക്കുന്നതിനാൽ ഇവയെ ചേർക്കുക അതിനാൽ ഈ വരി മുഴുവൻ ദൃശ്യമാകും അതിനാൽ ഈ കാഴ്ചയിൽ ഇത് ഒരു തുടർച്ചയായ രേഖയായിരിക്കും നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്നു ഈ തിരശ്ചീന തലത്തിൽ ഇത് കാണിക്കാൻ ഞാൻ ശ്രമിക്കുന്നു അതിനാൽ പി 4 പി 5 പി 6 പി 7 പി 8 എന്നിവയിലൂടെ കടന്നുപോകുന്ന സുഗമമായ ഫ്രീഹാൻഡ് കർവ് ഉപയോഗിച്ച് ചേർക്കുക സുഗമമായ ഒരു കർവ് ലഭിക്കുന്നതിന് തുടർച്ചയായ ഒരു കർവ് ഉപയോഗിച്ച് ഇത് പൂർണ്ണമായും ചേർക്കുക നമുക്ക് ഫ്രഞ്ച് കർവുകൾ ഉപയോഗിക്കാം അതിനാൽ ഇതിനെ കോണാകൃതിയിലുള്ള ഹെലിക്സ് എന്ന് വിളിക്കുന്നു ഇവിടെ അത് ഒരു റിവൊല്യൂഷൻ സൃഷ്ടിച്ചു ചില സാഹചര്യങ്ങളിൽ നമ്മൾ കൂടുതൽ റിവൊല്യൂഷൻ നടത്തുകയാണെങ്കിൽ സമാനമായ ഒരു നടപടിക്രമം പാലിക്കേണ്ടതുണ്ട് ഒരു റിവൊല്യൂഷൻ പകരം രണ്ട് റിവൊല്യൂഷൻ കടന്നുപോകുന്നുവെങ്കിൽ ഈ കർവിനെ രണ്ട് റിവൊല്യൂഷൻ കളിലേക്ക് കൂടി നീട്ടേണ്ടതുണ്ട് കൂടുതൽ ഭാഗങ്ങളായി വിഭജിച്ച് അതിനെ സുഗമമായി ബന്ധിപ്പിക്കുക ഇതോടെ നമ്മൾ കോണാകൃതിയിലുള്ള വിഭാഗങ്ങൾ നിറുത്തുകയാണ് അടുത്ത ക്ലാസ് മുതൽ പ്രൊജക്ഷനുകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും എന്താണ് ഒരു ലംബ തലം എന്താണ് തിരശ്ചീന തലം ഫ്രണ്ട് വ്യൂ എങ്ങനെ ദൃശ്യവൽക്കരിക്കാം ഒരു ടോപ് വ്യൂ എങ്ങനെ ദൃശ്യവൽക്കരിക്കാം സൈഡ് വ്യൂ ആയി എങ്ങനെ ദൃശ്യവൽക്കരിക്കാം ഈ കാഴ്ചകളുടെ ദിശാബോധം എന്നിവയെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കാണാം